നിങ്ങൾക്കറിയാം കഴിഞ്ഞ ക്ലാസിൽ J ഇന്റഗ്രലും CTOD യും തമ്മിലുള്ള ബന്ധം നമ്മൾ പരിശോധിച്ചു അന്തിമ പദപ്രയോഗം നമ്മൾ പരിശോധിച്ചു നമ്മൾ ആ പരസ്പര ബന്ധം എങ്ങനെ നേടാമെന്ന് കാണും നമ്മൾ ഡഗ്ഡെയ്ലിന്റെ yield സ്ട്രിപ്പ് മോഡലിലേക്ക് പോകുന്നു ഇതാണ് വിള്ളലിന്റെ സാങ്കൽപ്പിക വിപുലീകരണം ഇത് വളരെ അതിശയോക്തിപരമാണ് ഈ ഉയരം വളരെ ചെറുതാണെന്ന് നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഇതിനായി dy 0 ന് തുല്യമാണെന്ന് മിക്കവാറും പറയാം J CTOD എന്നിവ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ട്രിപ്പ് yield മേഖലയുടെ അതിർത്തിയിൽ ഒരു കോണ്ടൂർ എടുക്കുക കോണ്ടൂർ ഇവിടെ കാണിച്ചിരിക്കുന്നു ഞാൻ ഒരു കോണ്ടൂർ എടുത്തു വ്യക്തതയ്ക്കായി ഇത് ചെറുതായി സ്ഥാനചലനം സംഭവിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ സ്ട്രിപ്പ് yield മോഡലിന് വളരെ അടുത്താണ് അതിനാൽ നിങ്ങൾ ഒരു വിള്ളൽ മുഖത്ത് നിന്ന് ആരംഭിച്ച് മറ്റൊരു വിള്ളൽ മുഖത്ത് അവസാനിക്കുന്നു ഇതാണ് നിങ്ങളുടെ പക്കലുള്ളത് നമുക്കറിയാം J ഇന്റഗ്രലിന്റെ നിർവചനം ഇപ്രകാരമാണ് J equal to integrate over the contour ആദ്യ ടേം സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി കൈകാര്യം ചെയ്യുന്നു U dy മൈനസ് T i n dow u i by dow x into ds അതിനാൽ ഇത് വർക്ക് ടണ് നൽകുന്നു നിങ്ങൾക്ക് സ്ട്രെസ് വെക്ടറും അനുബന്ധ സ്ഥാനചലനവും ഉണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തി CTOD നേക്കാൾ വലുതാണെങ്കിൽ CTOD ഈ ദൂരം ഡെൽറ്റയല്ലാതെ മറ്റൊന്നുമല്ല ഇതാണ് പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തി ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെൽറ്റ വളരെ ചെറുതാണ് ഇത് അതിശയോക്തി കലർന്ന ചിത്രമാണ് നമുക്ക് 0 എന്നതിന് തുല്യമായ dy എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനാൽ dy 0 ആയിരിക്കുമ്പോൾ J ഇന്റഗ്രലിൽ ഈ പദം 0 ആയി മാറുന്നു J ഇന്റഗ്രൽ ലളിതമായി മാറുന്നു എനിക്ക് ട്രാക്ഷൻ ഉണ്ട് അത് സിഗ്മ y അല്ലാതെ മറ്റൊന്നുമല്ല അത് കംപ്രസ്സീവ് ആണ് അതിനാൽ minus of minus become plus into dow uy divided by dow x into ds അതിനാൽ ഇതാണ് ഞാൻ വിലയിരുത്തേണ്ടത് ഓർക്കുക ഈ കോണ്ടൂർ വിള്ളൽ പ്രതലത്തോട് വളരെ അടുത്താണ് വ്യക്തതയ്ക്കായി ഇത് കുറച്ച് അകലെ കാണിക്കുന്നു വിള്ളൽ മുഖം കംപ്രസ്സീവ് ലോഡിന് വിധേയമാണ് വാസ്തവത്തിൽ അത് കോണ്ടൂറിലെ ട്രാക്ഷനായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇതാണ് എനിക്ക് ഉള്ളത് ഞാൻ ഈ അളവ് വിലയിരുത്തണം ഇത് ചെയ്യുന്നതിന് നിങ്ങൾ സ്ട്രിപ്പ് yield മേഖലയുടെ അഗ്രത്തിൽ ഉത്ഭവമുള്ള ഒരു പുതിയ കോർഡിനേറ്റ് സിസ്റ്റം നിർവചിക്കുന്നു X ഇവിടെ 0 ന് തുല്യമാണ് X 0 മുതൽ ഡെൽറ്റ a ലേക്ക് പോകുന്നു ഞാൻ ചെറിയ x നെ ഡെൽറ്റ a മൈനസ് ക്യാപിറ്റൽ എക്സ് എന്ന് നിർവചിക്കുന്നു ഇത് ഡയഗ്രാമിൽ ക്യാപിറ്റൽ എക്സ് ആയി കാണിക്കുന്നു അതുകൊണ്ടാണ് ഇത് ആ രീതിയിൽ എടുക്കുന്നത് അതിനാൽ ക്രമേണ എനിക്ക് J equal to 2 times integral 0 to delta a sigma yy d uy by dx into d x എന്ന് കിട്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് 2 uy ഒരു സ്ഥാനത്തും ഡെൽറ്റയല്ലാതെ മറ്റൊന്നുമില്ല ഡെൽറ്റ യഥാർത്ഥത്തിൽ സ്ഥാനചലനത്തിന്റെ മൂല്യത്തിന്റെ ഇരട്ടിയാണ് uy അതിനാൽ ഞാൻ ആ ഐഡന്റിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഡെൽറ്റ സിഗ്മ ys നെ d ഡെൽറ്റയിലേക്ക് 0 ന് തുല്യമായ ലളിതമായ ഒരു പദപ്രയോഗം എനിക്ക് ലഭിക്കും നിങ്ങൾക്കറിയാമോ നിങ്ങൾ limits നൽകുമ്പോൾ അത് ഡെൽറ്റയിലേക്ക് സിഗ്മ ys ന് തുല്യമായ J ആയി കുറയ്ക്കുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ ക്ലാസിലെ പരസ്പര ബന്ധമായി നമ്മൾ കണ്ടത് ഇതാണ് ഇപ്പോൾ ഈ പരസ്പര ബന്ധം എങ്ങനെ നേടാമെന്ന് നമ്മൾ പരിശോധിച്ചു നിങ്ങൾ സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പൊതു പരിഹാരം അല്ലെങ്കിൽ J യും ഡെൽറ്റയും തമ്മിലുള്ള പൊതുബന്ധം J equal to m times sigma ys ഡെൽറ്റയ്ക്ക് തുല്യമാണ് ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങൾക്ക് m 1 ന് തുല്യമാണ് സ്ട്രിപ്പ് yield മോഡൽ plane സമ്മർദ്ദവും നോൺ സ്ട്രെയിൻ കാഠിന്യം നൽകുന്ന വസ്തുക്കളും അനുമാനിക്കുന്നു അതിനാലാണ് സിഗ്മ ys യൂണിഫോം എന്ന നിലയിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ ഉള്ളത് വിശകലനത്തിലേക്ക് നമ്മൾ strain hardening ഉൾപെടുത്തുന്നില്ല നോക്കൂ നിങ്ങൾ ശരിക്കും ഡഗ്ഡെയ്ലിന്റെ സ്ട്രിപ്പ് yield മോഡൽ നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായ ഒരു രീതിയാണ് എന്നാൽ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനത്തിൽ ഇത് വളരെ നല്ല ഉപയോഗം കണ്ടെത്തുന്നു ആളുകൾ അതിൽ നിന്ന് CTOD മായി ബന്ധപ്പെട്ട ആശയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് J യും CTOD യും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് പിന്നീടുള്ള ആളുകൾ പരാജയ വിലയിരുത്തൽ ഡയഗ്രം എന്നറിയപ്പെടുന്നവ വികസിപ്പിച്ചെടുക്കുകയും ആരംഭ പോയിന്റ് ഡഗ്ഡെയ്ലിന്റെ മാതൃകയിൽ നിന്നുമായിരുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഡഗ്ഡേൽ yield സ്ട്രിപ്പ് മോഡലിൽ നിന്ന് ലഭിക്കുന്ന സിഗ്മ ys ഡെൽറ്റയ്ക്ക് തുല്യമാണ് J എന്നാൽ ഒരു പൊതുവായ ബന്ധം നിങ്ങൾക്ക് യഥാർത്ഥ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഘടകം ഉണ്ടാകാം അവസാന ക്ലാസിലും ഇത് പരാമർശിക്കപ്പെട്ടു വിവിധ ഫ്രാക്ചർ പാരാമീറ്ററുകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്ന് ഊന്നിപ്പറയാൻ ഇത് വീണ്ടും ചർച്ചചെയ്യുന്നു അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് ചെറിയ തോതിലുള്ള yielding പരിമിതികൾക്കുള്ളിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K പോലെ നമ്മൾ നേരത്തെ നോക്കിയ ഫ്രാക്ചർ പാരാമീറ്ററുകൾ CTOD അതായത് ഡെൽറ്റയുമായി ബന്ധപ്പെട്ടതാണ് ഊർജ്ജം പുറത്തു വിടുന്ന നിരക്കും സമ്മർദ്ദ തീവ്രത ഘടകവും തമ്മിലുള്ള പരസ്പര ബന്ധവും നമ്മൾ വിശദമായി കണ്ടു ഈ ബന്ധത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് G യും ഡെൽറ്റയും തമ്മിൽ ഒരു ഐഡന്റിറ്റി കണ്ടെത്താൻ കഴിയും അതാണ് G ക്ക് തുല്യമായ സിഗ്മ ys ഡെൽറ്റ കൂടാതെ അടുത്തിടെ നമ്മൾ സിഗ്മ ys ഡെൽറ്റയും J ന് തുല്യമായി സ്ഥാപിച്ചു അല്ലാത്തപക്ഷം ഊർജ്ജ പ്രകാശന നിരക്ക് G linear case ൽ J ന് തുല്യമാണ് അതിനാൽ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പരിധിക്കുള്ളിൽ നമ്മൾ J G CTOD സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ തുടങ്ങിയ പാരാമീറ്ററുകൾ കണ്ടു അവയെല്ലാം പരസ്പരബന്ധിതമാണ് അതിനാൽ ഫ്രാക്ചർ സ്വഭാവം മനസിലാക്കുന്നതിനുള്ള ആരംഭ പോയിന്റ് വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം ഒരുതരം പരസ്പര ബന്ധത്തിലേക്ക് ഒത്തുചേരുന്നുവെന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു LEFM ന്റെ പരിധിക്കുള്ളിൽ വിള്ളൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ചില ആന്തരിക സ്ഥിരതയുണ്ടെന്ന് ഇത് നൽകുന്നു EPFM ൽ നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ പരിഷ്കൃതമാണ് LEFM ലെ ഗണിതശാസ്ത്ര വികസനം K K IC യാകുന്നത് നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഫ്രാക്ചർ tougness ഉണ്ട് എന്നിട്ട് G G IC അല്ലെങ്കിൽ J J IC ആയി മാറുന്നു സമാനരീതിയിൽ ആളുകൾ CTOD യുടെ നിർണ്ണായക മൂല്യവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് COD അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫ്രാക്ചർ മാനദണ്ഡം ഉണ്ടായിരിക്കാം കാരണം ഇത് CTOD അല്ലെങ്കിൽ COD എന്നിവയിൽ ഉപയോഗിക്കുന്നു എപ്പോഴാണ് ഇത് പ്രധാനപ്പെട്ടത് കാര്യമായ പ്ലാസ്റ്റിക് രൂപഭേദം ഫ്രാക്ചർ ഇന് മുമ്പുള്ളപ്പോൾ ഫ്രാക്ചർ നിയന്ത്രിക്കുന്നത് പ്ലാസ്റ്റിക് സമ്മർദ്ദത്തിന്റെ അളവാണ് COD യുടെ ആവശ്യകത നിങ്ങൾ നോക്കുന്നുണ്ടോയെന്ന് കാണുക വിള്ളലിന് സമീപം പ്ലാസ്റ്റിക് സമ്മർദ്ദം ഗണ്യമായി വികസിപ്പിച്ചെടുക്കുമ്പോൾ ആളുകൾ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ വിപുലീകരിക്കാൻ ആഗ്രഹിച്ചു നിങ്ങൾക്ക് ഒരു വലിയ പ്ലാസ്റ്റിക് സോൺ ഉള്ളപ്പോൾ LEFM ബാധകമല്ല നിങ്ങൾ മറ്റ് ബദൽ മാർഗങ്ങൾ നോക്കണം പ്ലാസ്റ്റിക് സമ്മർദ്ദത്തിന്റെ അളവ് COD അല്ലാതെ മറ്റൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ CTOD ആണ് കാരണം പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിച്ചതിന്റെ ദൈർഘ്യമേറിയതാക്കാൻ നമ്മൾ വിള്ളൽ വീക്ഷിച്ചു യഥാർത്ഥ ഫിസിക്കൽ ക്രാക്കിന് ഒരു സ്ഥാനചലനം ഉണ്ടാകും അത് യഥാർത്ഥത്തിൽ CTOD ആണ് അതിനാൽ മറ്റ് പാരാമീറ്ററുകൾക്ക് സമാനമായി COD ഒരു നിർണായക മൂല്യത്തിൽ എത്തുമ്പോൾ ക്രാക്ക് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഡെൽറ്റ എന്തു തന്നെയായാലും ഡെൽറ്റ ഡെൽറ്റ c ആയി മാറിയാൽ ഫ്രാക്ചർ ആരംഭിക്കും ഇത് specimen കോൺഫിഗറേഷനിൽ നിന്നും ക്രാക്ക് ദൈർഘ്യത്തിൽ നിന്നും വിഭിന്നമായ ഒരു മെറ്റീരിയൽ constant ആണെന്ന് അനുമാനിക്കുന്നു ഈ അനുമാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പ്രായോഗിക ജ്യാമിതിക്കായി നിങ്ങൾക്ക് ഇത് എടുക്കാനാവില്ല ഡെൽറ്റ c ഒരു മെറ്റീരിയൽ സ്ഥിരാങ്കമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ചർ നെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയില്ല ഫ്രാക്ചർ toughness നമ്മൾ നോക്കിയതുപോലെ plane strain സാഹചര്യത്തിൽ ഒരു material property ആയി മാറുന്നു അനുയോജ്യമായ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഒരു മെറ്റീരിയൽ constant ആയി എടുത്ത് അത് തുടരാം COD കൈകാര്യം ചെയ്യുന്നതിലെ ചില വിശകലന വികസനത്തെക്കുറിച്ചും നമ്മൾക്കു അറിയാം ഇത് യഥാർത്ഥത്തിൽ Wells ചെയ്തു plane സമ്മർദ്ദത്തിനായുള്ള ഇർവിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് r p equal to delta by 2pi epsilon ys എന്ന് ലഭിക്കും ഇവിടെ എപ്സിലോൺ ys എന്നത് yield പോയിന്റിലെ സമ്മർദ്ദമാണ് നമ്മൾ ഇതിനകം കണ്ടു r p നുള്ള ഒരു പദപ്രയോഗം ഡെൽറ്റയ്ക്കുള്ള ഒരു പദപ്രയോഗവും നമ്മൾ കണ്ടു അതിനാൽ നിങ്ങൾ ഇവ രണ്ടും സംയോജിപ്പിച്ചാൽ 2pi എപ്സിലോൺ s ഉപയോഗിച്ച് ഡെൽറ്റയ്ക്ക് തുല്യമായ rp നിങ്ങൾക്ക് കണ്ടെത്താം ഈ പദപ്രയോഗങ്ങളെല്ലാം നിങ്ങളുടെ കുറിപ്പുകളിൽ ഉണ്ട് മൊത്തത്തിലുള്ള ടെൻസൈൽ സ്ട്രെയിൻ എപ്സിലോണിന് COD നേരിട്ട് ആനുപാതികമായിരിക്കുമെന്ന് കരുതുന്നത് ഉചിതമാണെന്ന് വെൽസ് വാദിച്ചു പൊതുവായ yield എത്തികഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഫ്രാക്ചർ മെക്കാനിക്സ് വികസനം നോക്കുകയാണെങ്കിൽ ആളുകൾ തുടക്കത്തിൽ ഒരു ഭൌതിക അടിസ്ഥാനത്തിൽ ആരംഭിക്കും ഒരു പരിധിവരെ പോകും അതിനപ്പുറം മുഴുവൻ വിശകലനവും അനുഭവപരമായിത്തീരും മുമ്പത്തെ നിരവധി അവസരങ്ങളിൽ നമ്മൾ കണ്ടു അതിനാൽ CTOD ന് ഒരു മാനദണ്ഡമായി ഒരു physical അടിസ്ഥാനമുണ്ടെന്ന് ഇവിടെ വീണ്ടും കാണാം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടപ്പാക്കുമ്പോൾ വിടവ് നികത്താൻ ധാരാളം emperical ബന്ധങ്ങളുണ്ട് അതിനാൽ COD overall ടെൻസൈൽ സ്ട്രെസ്സിനു ആനുപാതികമായിരിക്കുമെന്ന് വെൽസ് വാദിച്ചു അതിനാൽ ആ വാദത്തോടെ അദ്ദേഹം ചെയ്തത് rp by a equal to epsilon by epsilon ys എന്ന് അദ്ദേഹം അനുമാനിച്ചു ഇത് അന്തിമ പദപ്രയോഗമായ ഡെൽറ്റയെ 2pi എപ്സിലോൺ ys കൊണ്ട് എപ്സിലോണിന് തുല്യമായ എപ്സിലോൺ ys കൊണ്ട് ഹരിക്കുന്നു യുകെ വെൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ Dawes ഉം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇത് കൂടുതൽ വിപുലീകരിക്കുകയും COD ഡിസൈൻ കർവ് വികസിപ്പിക്കുകയും ചെയ്തു COD Design Curve അതിനാൽ നിങ്ങൾ ഭൌതിക അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അടിസ്ഥാനം സ്ഥാപിച്ചത് വെൽസ് ആണ് പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല നിങ്ങൾക്കറിയാമോ ആളുകൾ പരീക്ഷണ ഫലങ്ങൾ എടുക്കണം അതിനാൽ 1974 നും 1979 നും ഇടയിൽ യുകെ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡാവെസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അനുഭവപരമായ പരസ്പര ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി COD ഡിസൈൻ കർവ് നിർദ്ദേശിച്ചു അതിനാൽ നിങ്ങൾക്ക് capital phi equal to delta c divided by 2pi epsilon ys ഉണ്ട് പരമാവധി അത് epsilon by epsilon ys whole squared when epsilon by epsilon ys is less than or equal to 0 5 ന് തുല്യമാണ് എപ്സിലോൺ ബൈ എപ്സിലോൺ ys 0 5 നേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കുമ്പോൾ ഈ അളവ് epsilon by epsilon ys minus 0 25 ന് തുല്യമാണ് നോക്കൂ ഇത് ഒരു അനുഭവപരമായ ബന്ധമാണെന്ന് നിങ്ങൾ എടുക്കണം പാരീസ് നിയമം എങ്ങനെയായിരുന്നു അത് ഒരു അനുഭവപരമായ ബന്ധമായിരുന്നു ഇത് വളരെ ഉപയോഗപ്രദമാണ് പരീക്ഷണ ഫലങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു കർവ് ഫിറ്റിംഗ് നടപടിക്രമം ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അവർ പാരീസ് നിയമം നേടിയിട്ടുണ്ട് അത് ഒരു അനുഭവപരമായ ബന്ധമായിരുന്നു സമാനരീതിയിൽ COD ഡിസൈൻ കർവ് വീണ്ടും ഒരു അനുഭവ ബന്ധമാണ് എന്നാൽ ഇതിന് ഭൌതിക അടിത്തറയുണ്ട് അതിനാൽ നിരവധി semi emperical മെച്ചപ്പെടുത്തലുകൾ വരുത്തിയതിനാൽ ആളുകൾ ഇതിനെ വിളിക്കുന്നു അതിനാൽ ഭാഗികമായി ഇത് ഭൌതികശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പോൾ നിങ്ങൾ യഥാർത്ഥ മെറ്റീരിയൽ ഡാറ്റയെ ആശ്രയിക്കണം തുടർന്ന് ഫ്രാക്ചർ സ്വഭാവം വിശദീകരിക്കുന്നതിന് ഒരു അനുഭവപരമായ ബന്ധം കണ്ടെത്തണം J ബാധകമാകുന്ന ഇടവും നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ന്യൂക്ലിയർ വ്യവസായങ്ങളിലെ വിലയേറിയ ഉൽപാദന സാങ്കേതികത കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ ഘടനകളുടെ സ്വഭാവം ഭൌതിക സ്വഭാവത്തിൽ നിന്ന് ലബോറട്ടറി മാതൃകകൾ വ്യതിചലിക്കുന്നില്ല അതിനാൽ ഉൽപാദന രീതികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ന്യൂക്ലിയർ സ്ഥാപനത്തിൽ ഈ ആഡംബരമുണ്ടായിരുന്നു അതിനാൽ ഞാൻ ഒരു സാമ്പിളും ടെസ്റ്റും എടുക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തായാലും അത് യഥാർത്ഥ ഘടനകൾക്ക് ആശ്രയിക്കാവുന്നതാണ് അതിനാൽ ഉപയോഗിച്ച വസ്തുക്കളുടെ ഫ്രാക്ചർ മാനദണ്ഡമായി യുഎസിൽ J വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനുകളിൽ മറുവശത്ത് നിങ്ങൾ COD നോക്കുകയാണെങ്കിൽ ഇത് പ്രധാനമായും യുകെയിൽ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്തു ഇത് വെൽഡിംഗ് സന്ധികളുടെ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നു അങ്ങനെ ഡിസൈൻ ചെയ്ത വെൽഡഡ് ഭാഗങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് കൂടുതൽ നയിക്കപ്പെടുന്നു നോക്കൂ നിങ്ങൾ വെൽഡിംഗിനെ ഒരു നിർമ്മാണ പ്രക്രിയയായി നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ പക്വത പ്രാപിച്ചു എന്നാൽ പ്രാരംഭ ഘട്ടത്തിൽ വെൽഡിംഗ് പ്രക്രിയ കാരണം അവതരിപ്പിച്ച വ്യതിയാനങ്ങൾ ആളുകൾക്ക് ശരിക്കും മനസ്സിലായില്ല നിങ്ങൾക്ക് ശരിയായ താപ വിസർജ്ജനം ആവശ്യമാണ് അതിനാൽ വെൽഡിംഗ് നടത്തിയ ശേഷം residual സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല അതിനാൽ വിലയേറിയ അപകടങ്ങളാൽ ആളുകൾക്ക് പഠിക്കേണ്ടി വന്നു പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ വെൽഡിംഗ് കാരണം പ്രാദേശിക വ്യതിയാനങ്ങൾ ഉണ്ടാകാം COD രൂപകൽപ്പന സമീപനത്തിൽ അത് ന്യായമായും കണക്കാക്കപ്പെടുന്നു ഇത് രാജ്യം അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഒന്ന് യുഎസ് അധിഷ്ഠിതമാണെന്നും മറ്റൊന്ന് യുകെ ആസ്ഥാനമായുള്ളത് എന്നും നമ്മൾ കണ്ടു എന്നാൽ LEFM ന്റെ പരിധിക്കുള്ളിൽ രണ്ടും സമാനമാണ് EPFM ൽ അവയുടെ യൂട്ടിലിറ്റി വ്യത്യസ്തമാണ് എന്നാൽ LEFM ന്റെ പരിധിക്കുള്ളിൽ എല്ലാ ഫ്രാക്ചർ പാരാമീറ്ററുകളും തമ്മിൽ ഒരു പരസ്പര ബന്ധം നിലനിൽക്കുന്നു Failure Assessment in EPFM ഇപ്പോൾ കാണുക നമ്മൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് നീങ്ങുന്നു നിങ്ങൾ എങ്ങനെ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലെ പരാജയം വിലയിരുത്തും നമ്മൾ പറയുന്നു ഫ്രാക്ചർ മെക്കാനിക്സ് വിശകലനം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് എന്നാൽ നിങ്ങൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലെ പരാജയം വിലയിരുത്തുമ്പോൾ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി അത് സാധ്യമല്ല പ്ലാസ്റ്റിക് deformation ഫലങ്ങൾ കൂടി പരിഗണിക്കുക ഇത് വളരെ പ്രധാനമാണ് നോക്കൂ നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സ് മാത്രം പ്രയോഗിക്കരുത് പ്ലാസ്റ്റിക് collapse കാരണം failure നഷ്ടപ്പെടരുത് അതിനാൽ tough ഡക്റ്റൈൽ മെറ്റീരിയലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ന്യൂക്ലിയർ പ്ലാന്റ് പൈപ്പിംഗ് നോക്കുകയാണെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് തകർച്ച വിശകലനം മതിയാകും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പരാജയം വിലയിരുത്തൽ ഡയഗ്രം ഘടനാപരമായ ഘടകങ്ങളുടെ ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫ്രാക്ചർ ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന രീതിയാണ് FAD Motivation for FAD വാസ്തവത്തിൽ ഈ ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഒരു flavor നിങ്ങൾക്ക് നൽകാൻ പോകുന്നു നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിൽ പ്രവേശിക്കാതെ അടിസ്ഥാന രീതി എന്താണ് ഞാൻ പറഞ്ഞു തരാം അന്തിമ ഫലങ്ങൾ നമ്മൾ നോക്കുകയും എന്താണ് FAD ന്റെ പ്രയോജനം എന്ന് സ്വയം വിശദീകരിക്കുകയും ചെയ്യും എന്താണ് അതിനുള്ള പ്രചോദനം എനിക്ക് ഒരു വിള്ളൽ ഉള്ള ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് കരുതുക ഞാൻ അത് വലിക്കുന്നു വ്യവസ്ഥകൾ അത്തരത്തിലുള്ളതാണെങ്കിൽ അത് പൊട്ടുന്ന ഒടിവിലേക്കും ഘടകഭാഗത്തെ രണ്ടായി വിഭജിക്കുന്നു ഈ ദിശയിൽ സ്വയം സമാനമായ രീതിയിൽ വിള്ളൽ വളർന്നുവെന്ന് ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന ആശയമുണ്ട് എനിക്ക് ഒരു മോഡ് I ഉണ്ടെങ്കിൽ ഞാൻ ലോഡിംഗ് അങ്ങനെയാണ് വിള്ളൽ പ്രചരിപ്പിക്കുന്നത് അതാണ് കാണിക്കുന്നത് അതിനാൽ ഇത് തീർച്ചയായും ഒരു പരാജയമാണ്

അതിനാൽ എനിക്ക് ഒരു യഥാർത്ഥ ഘടകം ഉള്ളപ്പോൾ brittle fracture സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം മെറ്റീരിയൽ വളരെ കടുപ്പമുള്ളതും ലോഡിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണെങ്കിൽ നെറ്റ് സെക്ഷൻ പ്ലാസ്റ്റിക് deformation അനുഭവിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം ഇതിനെ നെറ്റ് സെക്ഷൻ yield എന്ന് വിളിക്കുന്നു ഇക്കാരണത്താൽ ഘടന തകർന്നേക്കാം അതിനാൽ ഒടിവുണ്ടാകുമോ അതോ പ്ലാസ്റ്റിക് തകർച്ച സംഭവിക്കുമോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് Brittle fracture നിയന്ത്രിക്കുന്ന പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് അപ്ലൈഡ് സ്ട്രെസ് ഒരു ഘടകമാണ് Flaw കളുടെ വലുപ്പം K IC യുടെ കാര്യത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഫ്രാക്ചർ toughness എന്താണ് CTOD യുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാം J IC യുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാം തീർച്ചയായും ഘടക ജ്യാമിതി K I K IC യ്ക്ക് തുല്യമാകുമ്പോൾ ഒടിവുണ്ടാകുമെന്ന് നിങ്ങൾ പറയും മറുവശത്ത് നമ്മൾ പ്ലാസ്റ്റിക് തകർച്ചയിലേക്ക് പോയാൽ ഇത് വീണ്ടും പ്രയോഗിച്ച സമ്മർദ്ദം yield സമ്മർദ്ദം ഫ്ലോ സ്ട്രെസ് എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നു മനസിലാക്കാൻ നിങ്ങൾ പ്ലാസ്റ്റിറ്റി സാഹിത്യത്തിലേക്ക് നോക്കണം എന്താണ് ഫ്ലോ സ്ട്രെസ് ഘടക ജ്യാമിതിയും ഒരു പങ്കു വഹിക്കുന്നു മെറ്റീരിയലിന്റെ flow stress ന് തുല്യമായ നെറ്റ് സെക്ഷൻ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഘടനയുടെ തകർച്ച സംഭവിക്കും അതിനാൽ പരാജയത്തിനുള്ള രണ്ട് വ്യവസ്ഥകളും നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ആശയം നിങ്ങൾക്ക് ഒന്നിനുപുറകെ ഒന്നായി വിടാൻ കഴിയില്ല പ്ലാസ്റ്റിക് തകർച്ചയും brittle fracture ഉം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം അതിനാൽ ഈ പ്രശ്നങ്ങൾ മനസ്സിൽ വച്ച് കൊണ്ട് പരാജയ വിലയിരുത്തൽ രേഖാചിത്രം failure assessment diagram സൃഷ്ടിച്ചു FAD Historical Development അതിനാൽ നിങ്ങൾ brittle fracture കണ്ടെത്തുകയും പ്ലാസ്റ്റിക് തകർച്ചയുടെ സാധ്യത പരിശോധിക്കുകയും അന്വേഷിക്കുകയും വേണം സമീപനം ഇതുപോലെയാണ് സമീപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചരിത്രപരമായ വികാസവും നമ്മൾ കാണും FAD സമീപനം ആദ്യം അവതരിപ്പിച്ചത് 1975 ൽ Dowling ഉം Townley യും ചേർന്നാണ് വർഷവും വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം അറുപതുകളിൽ ഇർവിൻ നടത്തിയ plasticity correction ഡഗ്ഡെയ്ലിന്റെ yield സ്ട്രിപ്പ് മോഡലും എല്ലാം കണ്ടെത്തി ഏകദേശം 68 ൽ നിങ്ങൾക്ക് J ഇന്റഗ്രൽ ആശയം ഉണ്ടായിരുന്നു 75 ഓടെ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് മതിയായ ധാരണയുണ്ടായിരുന്നു അതിനാൽ EPFM ലെ പരാജയം എങ്ങനെ വിലയിരുത്താമെന്ന് ആളുകൾ നോക്കി ഇത് അടിസ്ഥാനപരമായി വ്യവസായങ്ങളാൽ നയിക്കപ്പെടുന്നത് ആണെന്ന് നിങ്ങൾക്കറിയാം 1976 ൽ കേന്ദ്ര വൈദ്യുതി ജനറേറ്റിംഗ് ബോർഡ് യുണൈറ്റഡ് കിംഗ്ഡത്തിൽ CEGB എന്ന് ചുരുക്കത്തിൽ മാനദണ്ഡ സമീപനം ഉപയോഗിച്ച് FADയുടെ ആദ്യ നടപടിക്രമം പ്രസിദ്ധീകരിച്ചു ആ കൃതി ഹാരിസൺ മുതലായവയ്ക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു ആദ്യത്തെ നടപടിക്രമം ഡഗ്ഡേൽ yield സ്ട്രിപ്പ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അവർ നടപടിക്രമത്തിന് R6 നടപടിക്രമം എന്ന് പേരിട്ടു ആദ്യ പ്രസിദ്ധീകരണം മുതൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കി നിലവിലെ നടപടിക്രമത്തെ 1980 2001 2009 വർഷങ്ങളിൽ പരിഷ്കരിച്ച R6 നടപടിക്രമം എന്ന് വിളിക്കുന്നു കൂടുതൽ കൂടുതൽ പരീക്ഷണാത്മക വിവരങ്ങൾ പകരുന്നതിനനുസരിച്ച് ആളുകൾ നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നു അതിനാൽ brittle fracture ഉണ്ടാകുമോ അതോ പ്ലാസ്റ്റിക് തകർച്ച സംഭവിക്കുമോ അതോ EPFM ആശയങ്ങൾ നിയന്ത്രിക്കുമോ എന്ന് അന്വേഷിക്കാൻ ഈ FAD സമീപനം സഹായിക്കുന്നു അതിനാൽ ഈ സമീപനത്തിൽ ഈ സ്പെക്ട്രം മുഴുവൻ നോക്കുന്നു ഒപ്പം അടിസ്ഥാനവും നടപടിക്രമം ഇപ്രകാരമാണ് നിങ്ങൾക്ക് ലോഡ് അനുപാതത്തിൽ വരച്ച ഒരു ഗ്രാഫ് ഉണ്ട് ഇത് x അക്ഷത്തിൽ L r എന്നും y അക്ഷത്തിൽ toughness അനുപാതം K r എന്നും ഇടുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു എൻവലപ്പ് ലഭിക്കുന്നു എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഘടന curve ന് താഴെയുള്ള ഈ മേഖലയിലാണ് ഇത് സ്വീകാര്യമായ പ്രദേശമാണ് അതിനാൽ അത് നിങ്ങളുടെ L r ഉം K r ഉം മൂല്യങ്ങൾ നിർണ്ണയിക്കും നമ്മൾ കാണും L r എങ്ങനെ ലഭിക്കും എന്ന് K r എങ്ങനെ ലഭിക്കും എന്ന് Failure എൻവലപ്പ് yield സ്ട്രിപ്പ് മോഡൽ അല്ലെങ്കിൽ അത്യാധുനിക J ഇന്റഗ്രൽ വിശകലനം അല്ലെങ്കിൽ അനുഭവപരമായ പരസ്പരബന്ധം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് മൂന്നും നിങ്ങൾ സാഹിത്യത്തിൽ കാണുന്നു നിങ്ങളുടെ യഥാർത്ഥ structure പോയിന്റ് ഈ പ്രദേശത്തിന് പുറത്താണെങ്കിൽ പരാജയം സംഭവിക്കും അത് അസ്വീകാര്യമായ പ്രദേശമാണ് ഈ ഗ്രാഫിൽ ഈ മേഖലയിലെ brittle fracture അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്ന പരാജയം നിങ്ങൾക്ക് തിരിച്ചറിയാനും കഴിയും K r വളരെ ഉയർന്നതാണെങ്കിൽ brittle fracture പ്രധാനമാണ് L r തികച്ചും ഉയർന്നത് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് തകർച്ച ഉണ്ടാകും അതിനിടയിൽ brittle fracture ഉം പ്ലാസ്റ്റിക് തകർച്ചയും ആണ് നിയന്ത്രിക്കുന്നത് അതിനാൽ L r വളരെ ഉയർന്നതാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് തകർച്ച ഉണ്ടാകും നിങ്ങൾക്കായി ഘടന നിങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു അത് ഏത് തരത്തിലുള്ള ലോഡിംഗ് ആണെന്ന് അനുഭവിക്കുന്നതു അത് നിങ്ങളുടെ L r K r മൂല്യം ഉപയോഗിച്ച് വിലയിരുത്തും വക്രത്തിന് താഴെയായി ആണ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് സുരക്ഷിതമാണ് ഇപ്പോൾ ചോദ്യം പരാജയ എൻവലപ്പ് എങ്ങനെ ലഭിക്കും എന്നതാണ് L r എങ്ങനെ നിർവചിക്കാം K r എങ്ങനെ നിർവചിക്കാം yield സ്ട്രിപ്പ് മോഡൽ ഉപയോഗിക്കുന്ന FAD ആണ് ഏറ്റവും ലളിതമായ സമീപനം K അനുപാതത്തെ K I by K IC ആയി നിർവചിക്കുന്നു ഇത് പൂർണ്ണമായും LEFM അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾക്ക് സ്ട്രെസ് റേഷ്യോ ഉണ്ട് L r എന്നത് sigma by sigma c ആണ് Sigma c നിർണ്ണായക സമ്മർദ്ദമാണ് ഇത് ഒരു ഫ്ലോ സ്ട്രെസ് ആകാം പരാജയ എൻവലപ്പ് അടിസ്ഥാനപരമായി നിങ്ങളുടെ yield സ്ട്രിപ്പ് മോഡലിൽ നിന്ന് ലഭിക്കും ഇത് K r ഉം L r ഉം തമ്മിലുള്ള പരസ്പര ബന്ധം നൽകുന്നു അതിനാൽ K r L r multiplied by square root of 8 by pi squared ന് തുല്യമാണ് നിങ്ങൾക്ക് natural ലോഗരിതം ഉണ്ട് അപ്പോൾ secant L r pi by 2 and the whole power minus 1 K I K IC ന് തുല്യമാകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് fracture ആണ് അത് വ്യക്തമാണ് അതായത് K r 1 ന് തുല്യമാകുമ്പോൾ brittle fracture ഉണ്ടാകും L r 1 ന് തുല്യമാകുമ്പോൾ തകർച്ച സംഭവിക്കും ഞാൻ yield സ്ട്രിപ്പ് മോഡൽ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ strain hardening പരിഗണിക്കുന്നില്ല L r 1 ൽ കുറവാണെങ്കിൽ അത് പോലെ K r 1 ൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കേസ് ഉണ്ട് FAD Curve Definition ആളുകൾ ശരിക്കും പലതരം പരാജയ എൻവലപ്പുകൾ പരിശോധിച്ചു അതാണ് FAD കർവ് നിർവചനം നിങ്ങൾക്ക് ഇത് K r equal to L r 8 by pi square natural logarithm of secant pi by 2 L r whole power minus half എന്ന് ലഭിക്കും Yield സ്ട്രിപ്പ് മോഡലിനെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ആപ്ലിക്കേഷനായി FAD കർവ് നിർണ്ണയിക്കുന്നതിനുള്ള ഏറ്റവും കർശനമായ രീതി ഒരു ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് J ഇന്റഗ്രൽ വിശകലനം നടത്തുക എന്നതാണ് നിങ്ങൾക്കറിയാമോ അത് വളരെ ചെലവേറിയതായിരിക്കും അതിനാൽ ഇത് വളരെ ചെലവേറിയതായിരിക്കുന്നതിനാൽ ആളുകൾക്ക് ചില പൊതുവായ സമീപനങ്ങൾ നടത്താൻ ആഗ്രഹമുണ്ട് Yield സ്ട്രിപ്പ് മോഡലിലാണ് അവ ആരംഭിച്ചതെങ്കിലും ആളുകൾ ഏകദേശ രീതികളും റിപ്പോർട്ടുചെയ്തു പരാജയ എൻവലപ്പിൻറെ ഈ നിർവ്വചനം K r equal to e into epsilon reference divided by L r multiplied by sigma ys plus L r cube sigma ys divided by 2 times Youngs modulus epsilon reference whole power minus half എന്നാണ് ഈ വക്രം ഓരോ മെറ്റീരിയലിനും സവിശേഷമാണ് അതായത് വ്യത്യസ്ത മെറ്റീരിയലുകൾക്കായി നിങ്ങൾക്ക് വ്യത്യസ്ത FAD കർവ് ആവശ്യമാണ് Refer slide time 3040 കേവലം അനുഭവേദ്യമായ മറ്റൊരു മോഡലും ഉണ്ട് അത് K r equal to one minus 0 14 L r square multiplied by 0 3 plus 0 7 exponential minus 0 65 L r whole power 6 for L r is less than L r max ആണ് അതുപോലെ തന്നെ സാഹിത്യത്തിൽ ഉദ്ധരിച്ച മറ്റ് അനുഭവപരമായ ബന്ധങ്ങളും നിങ്ങൾക്കുണ്ട് നോക്കൂ അനുഭവപരമായ സമീപനങ്ങൾ യഥാർത്ഥ ഘടനാപരമായ ഘടകങ്ങളിലേക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുന്നതിൽ കൂടുതൽ സ്വീകാര്യത കണ്ടെത്തി പ്രശ്ന ഡൊമെയ്ൻ വളരെ സങ്കീർണ്ണമായതിനാൽ അനുയോജ്യമായ പരീക്ഷണങ്ങൾ നടത്തി ഡാറ്റ കണ്ടെത്തി ആളുകൾ ഒരു കർവ് ഫിറ്റിംഗ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ലാഭകരമാണ് അത് FAD സമീപനത്തിലും കാണപ്പെടുന്നു വിശകലനം പരിഷ്കരിക്കുന്നതിന് K r L r നിർവചനങ്ങൾ ഉചിതമായി എടുക്കുന്നു എന്താണ് K r എന്ന് ലഭിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് K r പൊതുവായി K I divided by K of material എന്ന് പ്രതിനിധീകരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നിങ്ങൾ LEFM എന്ന ആശയങ്ങൾ പ്രയോഗിക്കുമ്പോൾ മാത്രം ഡിനോമിനേറ്റർ K IC ആണ് അതിനാൽ K മെറ്റീരിയലിന്റെ നിർവചനം മാറ്റിസ്ഥാപിച്ചാൽ മുഴുവൻ വിശകലനവും പരിഷ്കരിക്കാനാകും J അടിസ്ഥാനമാക്കിയുള്ള മെറ്റീരിയലിനായി നിങ്ങൾക്ക് ഒരു J ക്രിട്ടിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് K മെറ്റീരിയൽ കണക്കാക്കാം നിങ്ങൾ പരസ്പരബന്ധം ഉപയോഗിക്കുകയും പിന്നീട് K കണ്ടെത്തുകയും ചെയ്യുക കൂടാതെ CTOD യെ അടിസ്ഥാനമാക്കിയുള്ള K മെറ്റീരിയലും നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ കെ മെറ്റീരിയലിനെ square root of chi into sigma ys delta critical multiplied by E divided by 1 minus nyu square എന്ന് എഴുതാം ഇവിടെ chi എന്നത് ഒരു നിയന്ത്രണ ഘടകമാണ് സാധാരണയായി 1 5 മുതൽ 2 വരെയാണ് ഇതിന്റെ മൂല്യം അതിനാൽ അവർ ചെയ്യുന്നത് നിങ്ങൾ ഒരു LEFM വിശകലനം ചെയ്യുകയാണെങ്കിൽ K മെറ്റീരിയൽ K IC ആയി എടുക്കുക എന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ നിങ്ങളുടെ വിശകലനം പരിഷ്കരിക്കണമെങ്കിൽ J IC അല്ലെങ്കിൽ ഡെൽറ്റ ക്രിട്ടിക്കൽ പോലുള്ള EPFM പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി ഈ നിർവചനം പരിഷ്ക്കരിക്കുക അതിനാൽ അവർ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് പരാജയ എൻവലപ്പ് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂല്യനിർണ്ണയ പോയിൻറ് അതിനു താഴെയാണെങ്കിൽ അത് സുരക്ഷിതമാണ് അതിനു മുകളിലാണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് വിശകലനത്തിൽ ആളുകൾ ചെയ്യുന്ന പരാജയ വിലയിരുത്തലിന്റെ ഒരു flavor ഇത് നൽകുന്നു Mixed Mode fracture ഇപ്പോൾ നമ്മുടെ അടുത്ത വിഷയമായ മിക്സഡ് മോഡ് ഫ്രാക്ചറിലേക്ക് നമ്മൾ നീങ്ങുന്നു നോക്കൂ മോഡ് വൺ വിശകലനത്തിൽ അൽപ്പം ശ്രദ്ധ നമ്മൾ ചെലുത്തി എന്നാൽ നിങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് മോഡ് I ലോഡിങ് മാത്രമേയുള്ളൂ ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വ്യത്യസ്ത രീതിയിലുള്ള ഫ്രാക്ചർ ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു കോംപാക്റ്റ് ടെൻഷൻ മാതൃകയ്ക്ക് പോലും ലോഡിംഗ് അക്ഷം ക്രാക്ക് അക്ഷത്തിന് ലംബമായില്ലെങ്കിൽ ഒരു ചെറിയ അളവിലുള്ള മോഡ് II ലോഡിംഗ് ഉണ്ടാകും മോഡ് I ന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു K I K IC ആകുമ്പോൾ catastrophic failure സംഭവിക്കും അതുപോലെ തന്നെ വ്യക്തിഗത മോഡുകൾക്കും ഒടിവ് അല്ലെങ്കിൽ വിള്ളൽ പ്രചരണം ആരംഭിക്കുന്നത് അതാത് fracture toughness values തീരുമാനിക്കുന്നു എനിക്ക് സംയോജിത ലോഡിംഗ് ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ലോഡിംഗ് രീതികൾ ഉള്ളപ്പോൾ ഒടിവുണ്ടാകാനുള്ള മാനദണ്ഡം എന്തായിരിക്കണം എന്നതാണ് ചോദ്യം അതിനാൽ ഇത് ആദ്യത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ഏത് ദിശയിലാണ് വിള്ളൽ പ്രചരിപ്പിക്കുന്നത് അതും ഒരുപോലെ പ്രധാനമാണ് ഇവയെല്ലാം നിങ്ങൾ മനസിലാക്കുന്നുവെങ്കിൽ മാത്രമേ വിള്ളലിന് സമീപം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും പരമ്പരാഗത രൂപകൽപ്പന സമീപനങ്ങളിൽ നമ്മൾ വീണ്ടും ചെയ്യുന്നത് കടമെടുക്കും നമ്മൾ ഒരു ടെൻഷൻ ടെസ്റ്റ് നടത്തുന്നു നിങ്ങളുടെ ഉപകരണത്തിലെ പരാജയ മാനദണ്ഡം കണ്ടെത്തുക നിങ്ങൾക്ക് ട്രെസ്ക yield മോഡലും വോൺ മിസ്സ് yield മോഡലും ഉണ്ട് നിങ്ങൾക്ക് ലളിതമായ പ്രശ്നങ്ങൾക്ക് പോലും വ്യത്യസ്ത പരാജയ സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ വ്യക്തമായി പരാജയ സിദ്ധാന്തങ്ങൾ പലതായിരിക്കും നിങ്ങൾ അത് മുൻകൂട്ടി കാണണം ഇവിടെ വീണ്ടും നമ്മൾ നോക്കുന്നത് പ്രാരംഭ രീതിശാസ്ത്രങ്ങൾ ഒരു ഭൌതികശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നാൽ പിന്നീട് അനുഭവ വിശകലനം നിലനിൽക്കുന്നു അതിനാൽ അപ്രകാരമാണ് നമ്മൾ അതിനെ നോക്കുന്നതു Crack Growth Directions അതിനാൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും ഞാൻ ഉപയോഗിക്കേണ്ട മാനദണ്ഡം എന്തായിരിക്കണം എന്ന് രണ്ടാമത്തെ ചോദ്യം വിള്ളൽ പ്രചാരണത്തിന്റെ ദിശ എന്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം വ്യത്യസ്ത തരം ലോഡിംഗിന് വിധേയമാകുമ്പോൾ വിള്ളൽ എങ്ങനെ വളരുന്നു എന്ന് എനിക്ക് ഒരു വിള്ളൽ ഉണ്ട് center crack ഉണ്ട് ഇവിടെ ഏകീകൃത പിരിമുറുക്കത്തിന് വിധേയമാണ് ലോഡിംഗ് ആവശ്യത്തിന് വർദ്ധിക്കുമ്പോൾ വിള്ളൽ തിരശ്ചീനമായി ഇതുപോലെ വളരുന്നു ഇതിനെ സ്വയം സമാനമായ വിള്ളൽ വളർച്ച എന്ന് വിളിക്കുന്നു നിങ്ങൾ ഈ പദാവലി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ക്രാക്ക് മോഡ് I ലോഡിംഗ് വിധേയമാക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം സമാനമായ ക്രാക്ക് വളർച്ചയുണ്ട് ഞാൻ ഒരേ പാനൽ എടുത്ത് pure shear പ്രയോഗിക്കുന്നുവെന്ന് കരുതുക വിള്ളൽ എങ്ങനെ വളരും വിള്ളൽ ഒരു കോണിൽ വളരുന്നു ഇത് സ്വയം സമാനമായ രീതിയിൽ പ്രചരിക്കുന്നില്ല അതിനാൽ ഏത് തരത്തിലുള്ള ലോഡിംഗിനെ ആശ്രയിച്ച് വിള്ളൽ വളർച്ചാ ദിശ വ്യത്യാസപ്പെടാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനാൽ pure mode I ഇന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഐസോട്രോപിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എനിക്ക് സ്വയം സമാനമായ വിള്ളൽ വളർച്ച ഉണ്ട് എനിക്ക് ഒരു മോഡ് II സാഹചര്യം ഉണ്ടാകുമ്പോൾ വിള്ളൽ ഒരു കോണിൽ വളരുന്നു അതിനാൽ ഈ സിദ്ധാന്തം പ്രവചിക്കാൻ എന്റെ സിദ്ധാന്തത്തിന് കൃത്യമായും കഴിയണം അപ്പോൾ ഞാൻ ആ സിദ്ധാന്തം സ്വീകരിക്കും അതാണ് നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് എന്ന ചോദ്യം എനിക്ക് മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനമുണ്ടെന്ന് കരുതുക വിള്ളൽ എപ്പോൾ ദുരന്തമാകുമെന്ന് ഞാൻ എങ്ങനെ വിധിക്കും ഏത് ദിശയിലാണ് വിള്ളൽ വളരുന്നത് ഇത്തരത്തിലുള്ള ഉത്തരം എനിക്ക് എങ്ങനെ ലഭിക്കും ഏറ്റവും ലളിതമായ ഒരു സമീപനം നമ്മൾ energy method ലേക്ക് പോകും Criteria based on Energy Release rate അതിനാൽ നിങ്ങൾ എനർജി ബാലൻസ് മാനദണ്ഡം ചെയ്യുന്നു സംയോജിത ലോഡിങ് സാഹചര്യത്തിൽ energy ഒരു സ്കെയിലർ അളവായതിനാൽ വ്യക്തിഗത മോഡുകൾ മൂലമുള്ള energy ചേർക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ പദപ്രയോഗങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് G I G II G III എന്നിവയ്ക്കായുള്ള പദപ്രയോഗങ്ങൾ ഉണ്ട് ഇത് plane stress നായി പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇത് plain strain നായി പ്രത്യേകം എഴുതിയിരിക്കുന്നു അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വ്യക്തിഗത ഊർജ്ജങ്ങളെല്ലാം സംഗ്രഹിക്കുക എന്നതാണ് മൊത്തം ഊർജ്ജത്തിന് ഒരു നിർണായക മൂല്യം ഉണ്ടായിരിക്കണം ഒടിവ് എപ്പോൾ സംഭവിക്കുമെന്ന് അത് തീരുമാനിച്ചേക്കാം നമ്മൾ നേടിയ ഈ പരസ്പര ബന്ധത്തിനായി പോലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കോപ്ലാനാർ ക്രാക്ക് എക്സ്റ്റൻഷൻ എന്ന് അനുമാനിക്കുന്നു അതിനാൽ ഗ്രിഫിത്ത് പോലും ഈ ഊർജ്ജ പ്രകാശന നിരക്ക് മുന്നോട്ടുവച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തി നിങ്ങൾ മോഡുകൾ സംയോജിപ്പിക്കുമ്പോൾ മിക്സഡ് മോഡ് സാഹചര്യം വിശദീകരിക്കാൻ ഇത് പര്യാപ്തമല്ലായിരിക്കാം എന്ന് വിള്ളൽ വളർച്ച കോപ്ലാനാർ ആയിരിക്കുന്നിടത്തോളം കാലം ഈ സിദ്ധാന്തം ശരിയാണ് അതിനാൽ വിള്ളൽ വളർച്ച കോപ്ലാനാർ ആകുമ്പോൾ വിള്ളൽ ഏത് ദിശയിൽ വളരുമെന്നതിൽ തർക്കമില്ല വിള്ളൽ വളർച്ചയുടെ ദിശ ഇതിനകം അറിയാം ചില നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകളിൽ മിക്സഡ് മോഡിൽ പോലും നിങ്ങൾക്ക് കോപ്ലാനാർ ക്രാക്ക് എക്സ്റ്റൻഷൻ വേഗത്തിലാക്കാൻ കഴിയും എനിക്ക് ഒരു adhesive ബോണ്ടഡ് ജോയിന്റ് ഉണ്ടെന്ന് കരുതുക അങ്ങനെ ജോയിന്റ് വിള്ളൽ പ്രചരിപ്പിക്കുന്ന ദിശ തീരുമാനിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് combined മോഡ് ലോഡിംഗ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഷെവ്റോൺ നോച്ചിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലുള്ള സൈഡ് grooves എനിക്കുണ്ട് നിങ്ങൾ ഒരു പ്രത്യേക plane ദുർബലമാക്കി അതിനാൽ ആ plane ൽ വിള്ളൽ വളർച്ച സംഭവിക്കും നിങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ നിന്ന് വിള്ളൽ വളർച്ചാ ദിശ കണക്കാക്കാൻ അനുവദിക്കുന്ന മാനദണ്ഡങ്ങളും നിങ്ങൾക്കുണ്ട് സിദ്ധാന്തങ്ങളിലൊന്ന് എർദോഗനും സിഹും മുന്നോട്ടുവയ്ക്കുന്നു ഇത് maximum principle stress മാനദണ്ഡമായി പട്ടികപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ യഥാർത്ഥ മാനദണ്ഡം ശരിക്കും നോക്കുകയാണെങ്കിൽ വിള്ളൽ പരമാവധി ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ടെൻസൈൽ സമ്മർദ്ദത്തിന്റെ ദിശയിലേക്കാണ് വ്യാപിക്കുന്നതെന്ന് അനുമാനിക്കാം വെസ്റ്റർഗാർഡിന്റെ Westergaard's സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ നമ്മൾ നോക്കിയത് കാണുക വില്യംസിന്റെ William's സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളും നമ്മൾ പരിശോധിച്ചു വില്യംസ് സമീപനത്തിൽ നിന്ന് നമ്മൾക്കു നേരിട്ട് sigma rr sigma theta theta and tau r theta ലഭിച്ചു ഈ മാനദണ്ഡം എന്താണ് പറയുന്നത് ഇത് പരമാവധി ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡം എന്നും അറിയപ്പെടുന്നു അതിനാൽ അതിനെ MTS മാനദണ്ഡം എന്ന് വിളിക്കുന്നു അസിംപ്റ്റോട്ടിക് സ്ട്രെസ് വിപുലീകരണത്തിലെ ആദ്യ പദം പരിഗണിച്ചാൽ മാത്രമേ maximum principle സമ്മർദ്ദത്തിന്റെ ദിശയും ഈ ദിശയും യോജിക്കയുള്ളു നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു നമ്മൾ മൾട്ടി പാരാമീറ്റർ solution വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാ ഒടിവ് ചർച്ചകൾക്കും നമ്മൾ പറഞ്ഞു ഈ ശ്രേണിയിലെ ആദ്യ ടേമിലേക്ക് നമ്മുടെ ശ്രദ്ധ പരിമിതപ്പെടുത്തും ആദ്യ പദം മാത്രം ഞാൻ പരിഗണിക്കുമ്പോൾ ഇത് പ്രധാന സമ്മർദ്ദം പരമാവധി പ്രധാന സമ്മർദ്ദം എന്ന് ആകുന്നു അതിനാൽത്തന്നെ ഇതിനെ പരമാവധി പ്രധാന സമ്മർദ്ദ മാനദണ്ഡമായി കണക്കാക്കുന്നു എന്നാൽ ഒരു ജനറിക് ടെർമിനോളജി maximum ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡമാണ് ലളിതമായ വിശകലനത്തിന്റെ കാര്യത്തിൽ maximum principal സമ്മർദ്ദ ദിശയും പരമാവധി സിഗ്മ തീറ്റ തീറ്റ മൂല്യത്തിന്റെ ദിശയും യോജിക്കുന്നു എന്നിരുന്നാലും ഉയർന്ന ഓർഡർ പദങ്ങളുടെ സ്വാധീനം പരിഗണിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമാവധി ടാൻജൻഷ്യൽ സമ്മർദ്ദത്തിന്റെ ദിശ കണക്കാക്കുക അതിനാൽ നിങ്ങൾ അത് കണക്കാക്കണം അതിനാൽ നിങ്ങൾക്ക് dow sigma theta theta divided by dow theta equal to 0 എന്ന് ലഭിക്കും അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് maximum ടാൻജൻഷ്യൽ സ്ട്രെസിന്റെ ദിശ എന്താണ് തുടർന്ന് കണക്കുകൂട്ടൽ നടത്തുക എന്നാൽ ആദ്യ ടേമിനായി ഇത് maximum principal സമ്മർദ്ദ ദിശയിലേക്ക് തിളച്ചുമറിയുന്നു അതിനാൽ ഇത് ഒരു മാനദണ്ഡമാണ് മറ്റ് മാനദണ്ഡങ്ങളെ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി SED എന്ന് വിളിക്കുന്നു അത് സിഹ് Sih കാരണം ആകുന്നു ഈ മാനദണ്ഡം പറയുന്നത് മിക്സഡ് ലോഡിംഗിന് കീഴിലുള്ള വിള്ളൽ കുറഞ്ഞ ഊർജ്ജ സാന്ദ്രതയുടെ ദിശയിലേക്ക് വ്യാപിക്കും MTS അല്ലെങ്കിൽ maximum principal സമ്മർദ്ദ മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ മിക്സഡ് ലോഡിംഗിന് കീഴിലുള്ള വിള്ളൽ പരമാവധി ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ലളിതമായ കേസിലെ പ്രധാന സമ്മർദ്ദത്തിന്റെ ദിശയിലേക്ക് വ്യാപിക്കും ഇത് കാണാൻ വളരെ എളുപ്പമാണ് തീറ്റയ്ക്കായി വളരെ ഭംഗിയായി നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ നേടാൻ കഴിയും Maximum principal stress criterion നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നോക്കുന്നു നിങ്ങൾക്ക് ഇതിനകം തന്നെ ഈ പദപ്രയോഗങ്ങളുണ്ട എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് വീണ്ടും എഴുതാം പോളാർ കോർഡിനേറ്റ ഇന്റെ കാര്യത്തിൽനിങ്ങൾക്ക് സമ്മർദ്ദ ഘടകങ്ങൾ ഉണ്ട് എനിക്ക് sigma theta theta is given as 1 by root of 2pi r cos theta by 2 multiplied by KI cos square theta by 2 minus 3 by 2 K II sin theta എന്ന് ലഭിക്കുന്നു നിങ്ങളുടെ shear stress tau r theta equal to 1 by 2 into root of 2 pi r cos theta by 2 K I sin theta plus K II 3 cos theta minus 1 കൂടാതെ ഈ ശ്രേണിയിലെ ആദ്യ പദം മാത്രമാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നു ക്രാക്ക് എക്സ്റ്റൻഷന്റെ ദിശ കണ്ടെത്തുന്നതിന് tau r theta 0 ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ dow Sigma theta theta divided by dow theta 0 ന് തുല്യമാണ് എന്ന് എടുക്കും അതിൽ നിന്ന് നിങ്ങൾ തുടരുക വിള്ളൽ വളർച്ചാ ആംഗിൾ കണ്ടെത്തുന്നതിന് ഇത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം നൽകുന്നു അതിനാൽ എനിക്ക് ഇവിടെയുള്ളത് വിള്ളൽ വളരുന്ന ഇടത്ത് തീറ്റ തീറ്റ m ആയിരിക്കട്ടെ Shear stress 0 ആകുമ്പോൾ K I sin theta m plus K II 3 cos theta m minus 1 should be equal to 0 എന്ന സമവാക്യം ലഭിക്കുന്നു നിങ്ങൾക്ക് തീറ്റ m നേരിട്ട് പരിഹരിക്കാനാകും ഇത് അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ sin തീറ്റ m നെ 2 sin theta m by 2 into cos m by 2 എന്ന് എഴുതാൻ സാധിക്കും അതുപോലെ നിങ്ങൾ cos തീറ്റ m വികസിപ്പിക്കുന്നു ഈ നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇത് 3 K II cos സ്ക്വയർ തീറ്റ m by 2 മൈനസ് sin സ്ക്വയർ തീറ്റ എം by 2 മൈനസ് K II sin സ്ക്വയർ തീറ്റ എം by 2 പ്ലസ് cos സ്ക്വയർ തീറ്റ m by 2 equal to 0 ഇത് 2 K II tan സ്ക്വയർ തീറ്റ m by 2 മൈനസ് K I tan തീറ്റ m by 2 മൈനസ് K II 0 ന് തുല്യമാക്കാം തീറ്റ m ന്റെ മൂല്യം ലഭിക്കുന്നതിന് ഇത് എനിക്ക് ഒരു പദപ്രയോഗം നൽകുന്നു എനിക്ക് tan theta m divided by 2 equal to 1 by 4 K I by K II plus or minus 1 by 4 square root of K I by K II whole square plus 8 എന്ന് ലഭിക്കുന്നു Condition for crack instability അതിനാൽ ഈ പ്രശ്നത്തിൽ വ്യക്തിഗത സമ്മർദ്ദ തീവ്രത ഘടകങ്ങൾ അറിയാമെങ്കിൽ MTS മാനദണ്ഡം സാധ്യമായ വിള്ളൽ വളർച്ചാ ആംഗിൾ എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾക്ക് നൽകുന്നു രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ഫ്രാക്ചർ സംഭവിക്കുന്നത് ഫ്രാക്ചർ ഇന്റെ ആരംഭം എങ്ങനെ കണ്ടെത്താമെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ പദപ്രയോഗത്തിൽ sigma theta theta ക്ക് പകരമായി theta equal to theta m വരുന്നു Pure mode I ൽ theta m equal to 0 and K I equal to K IC എന്ന് ലഭിക്കുന്നു അതിനാൽ ഈ quantity K I cos cube theta m divided by 2 minus 3 K II cos squared theta m by 2 into sin theta m by 2 mode 1 ൽ ഫ്രാക്ചർ toughness എത്തുമ്പോൾ ഫ്രാക്ചർ സംഭവിക്കുന്നു ലളിതമായ വിശകലനത്തിന്റെ കാര്യത്തിൽ മിക്സഡ് മോഡ് ലോഡിംഗ് തമ്മിലുള്ള സമാനത നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ Combined ലോഡിംഗ് സാഹചര്യം tension ടോർഷൻ ഒപ്പം bending എന്നിവ ഉണ്ടെന്നു കരുതുകനിങ്ങൾ principal സമ്മർദ്ദങ്ങളുടെ ആശയത്തിലേക്ക് പോകുന്നു ട്രെസ്കയിലോ വോൺ മിസ്സുകളിലോ ഉചിതമായ രീതിയിൽ നിങ്ങൾ അവയെ സംയോജിപ്പിക്കുന്നു ലളിതമായ ടെൻഷൻ പരിശോധനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ച് പരാജയ മൂല്യം കണ്ടെത്തുക പരമ്പരാഗത വിശകലനത്തിൽ yielding സംഭവിക്കുമോ ഇല്ലയോ എന്ന് വിലയിരുത്തുക സമാന ആശയം ഇവിടെ വിപുലീകരിച്ചിരിക്കുന്നു തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നിങ്ങൾ K I K II എന്നിവ കണ്ടെത്തണം എന്നാൽ മോഡ് I ലോഡിംഗ് ആയ K IC യുടെ ഫ്രാക്ചർ toughness എടുക്കുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് J യും CTOD യും തമ്മിലുള്ള പരസ്പരബന്ധം നമ്മൾ പരിശോധിച്ചു ചില derivation വിശദാംശങ്ങൾ നമ്മൾ നോക്കി പിന്നെ നമ്മൾ COD ഡിസൈൻ കർവ് പരിശോധിച്ചു ഇത് തികച്ചും അനുഭവപരമായ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനത്തിൽ failure എങ്ങനെ വിലയിരുത്താം എന്ന് നമ്മൾ പരിശോധിച്ചു അതിൽ നമ്മൾ FAD യുടെ അടിസ്ഥാനങ്ങൾ failure assessment diagrams എന്നിവ പരിശോധിച്ചു തുടർന്ന് നമ്മൾ മിക്സഡ് മോഡ് ഫ്രാക്ചറിലേക്ക് നീങ്ങി സ്വയം സമാനമായ വിള്ളൽ വളർച്ച എന്താണെന്നും മോഡ് II സാഹചര്യത്തിൽ വിള്ളൽ എങ്ങനെ വളരുമെന്നും നമ്മൾ പരിശോധിച്ചു പിന്നെ നമ്മൾ രണ്ട് സിദ്ധാന്തങ്ങൾ പരിശോധിച്ചു ഒന്ന് എനർജി ബാലൻസ് മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മറ്റൊന്ന് maximum ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡം ആണ് അടുത്ത ക്ലാസ്സിൽ മറ്റ് സിദ്ധാന്തത്തെക്കുറിച്ച് നോക്കാം